ട്രയൽ മേക്കിംഗ് ടെസ്റ്റ് എന്നത് വിഷ്വൽ ശ്രദ്ധയുടെയും ടാസ്ക് സ്വിച്ചിംഗിന്റെയും ഒരു പരിശോധനയാണ് ഇത് ഒരു വ്യക്തിയുടെ വേഗതയും ദ്രാവക വൈജ്ഞാനിക കഴിവും വലിയ തോതിൽ പ്രതിഫലിപ്പിക്കുന്നു ഈ ടെസ്റ്റ് ഉപയോഗിച്ച് വിഷ്വൽ സെർച്ച് സ്പീഡ് സ്കാനിംഗ് പ്രോസസ്സിംഗ് വേഗത മാനസിക വഴക്കം എക്സിക്യൂട്ടീവ് പ്രവർത്തനം എന്നിവ പഠിക്കാൻ കഴിയും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ ഇന്റലിജൻസ് നോക്കിയപ്പോൾ ആർമി ആൽഫ ആർമി ബീറ്റാ ടെസ്റ്റുകൾ എന്നിവയെക്കുറിച്ച് ഒരു ദ്രുത പരാമർശം നടത്തിയിരുന്നു ചരിത്രപരമായി ട്രയൽ മേക്കിങ് പൊതു ബുദ്ധിശക്തി വിലയിരുത്താൻ ഉപയോഗിച്ചു 1944 ലെ ലോകത്തെ നിങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റ് പൊതുവായ കഴിവിന്റെ ആർമി വ്യക്തിഗത പരീക്ഷയുടെ ഭാഗമാണ് എല്ലാ ടെസ്റ്റുകളും ഏതെങ്കിലും മാനുഷിക കഴിവുകളെക്കുറിച്ച് നിങ്ങളോട് പറയുന്നു അത്തരം കഴിവുകളുടെ ഇരിപ്പിടം തലച്ചോറിൽ സ്ഥിതി ചെയ്യുന്നു തലച്ചോറിന്റെ തകരാറുകൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാം ട്രയൽ മേക്കിംഗ് ടെസ്റ്റിനും ഇത് ശരിയാണ് 1950 കളിൽ മസ്തിഷ്ക ക്ഷതം മൂലമുള്ള വൈജ്ഞാനിക അപര്യാപ്തത വിലയിരുത്തുന്നതിനുള്ള ഒരു ന്യൂറോ സൈക്കോളജിക്കൽ ഉപകരണമായി ഇത് ഉപയോഗിച്ചു ഇത് ഹാൽസ്റ്റെഡ് റീറ്റൻ ബാറ്ററിയിൽ ഉൾപ്പെടുത്തി ട്രയൽ മേക്കിങ്ങിലെ മോശം പ്രകടനം ഫ്രണ്ട് ലോബുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക വൈകല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് ഇപ്പോൾ ഈ ടെസ്റ്റിന്റെ ഒരു ഡെമോ കാണാം ഇത് മനുഷ്യ ശ്രദ്ധ പരിശോധിക്കാൻ ഉള്ളൊരു അടിസ്ഥാന പരീക്ഷണമാണ് ഈ ടെസ്റ്റ് വളരെ എളുപ്പമാണ് 25 ഡോട്ടുകൾ ഉണ്ടാകും ശരി നിങ്ങൾ ഈ ഡോട്ടുകൾ പേന മുകളിലേക്ക് ഉയർത്താതെ ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ട്രയൽ ഉണ്ടാകും അത് ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കും തുടർന്ന് ഒരു ട്രയൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാന പരീക്ഷണത്തിലേക്ക് പോകാം അതിനാൽ ഇത് ഒരു ട്രയലാണ് അതിനാൽ ഒന്ന് ആണ് തുടക്കം എട്ട് അവസാനമാണ് അതിനാൽ ഇപ്പോൾ പേന ഉയർത്താതെ ഇത് ബന്ധിപ്പിക്കേണ്ടതുണ്ട് ദയവായി അത് ചെയ്യുമോ അതിനാൽ 1 ൽ നിന്ന് 2 ലേക്കും 3 4 5 67 8 എന്നിവയിലേക്ക് പോകുന്നു ഇപ്പോൾ പ്രധാന സെഷനിൽ 25 ഡോട്ടുകൾ ഇവിടെയുണ്ട് പേന മുകളിലേക്ക് ഉയർത്താതെ തന്നെ നമ്മൾ ഇതേ ഡോട്ട് കഴിയുന്നത്ര വേഗത്തിൽ ബന്ധിപ്പിക്കണം അതിനാൽ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് ആരംഭിക്കാം ഞാൻ തയ്യാറാണ് ചെയ്താലും നിങ്ങൾ പൂർത്തിയാക്കി അതിനാൽ ഈ ടെസ്റ്റ് പരീക്ഷ എന്താണ് ഈ ടെസ്റ്റ് പരീക്ഷ വിഷ്വൽ സെർച്ച് സ്പീഡ് ആണ് നിങ്ങൾ എത്ര വേഗത്തിൽ വാക്കുകൾ തിരയുന്നു പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഈ വേഗതയും തുടർന്ന് മാനസിക വഴക്കവും തുടർന്ന് എക്സിക്യൂട്ടീവ് പ്രവർത്തനവും കാരണം നിങ്ങൾ ഒരു ഡോട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറേണ്ടതുണ്ട് തുടർന്ന് ദിശാസൂചനയും തീരുമാനമെടുക്കലും ഉൾപ്പെടുന്നു അതിനാൽ ഈ ടെസ്റ്റ് നടത്തപ്പെടുന്നതും ഈ ടെസ്റ്റ് നടത്താനുള്ള ശരാശരി വേഗത 75 സെക്കന്റുമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വേഗത്തിലാലാണെങ്കിൽ 25 സെക്കൻഡ് ആണ് എന്നാൽ നിങ്ങൾ ഈ സ്പീഡ് റേറ്റ് കവിഞ്ഞാൽ നിങ്ങൾ കുറവ് എന്ന വിഭാഗത്തിൽ പെടാം ഇപ്പോൾ അടുത്ത ടെസ്റ്റ് ഇതാണ് ഇത് കുറച്ചുകൂടി സങ്കീർണ്ണമാണ് ശരി ഇപ്പോൾ ഞാൻ സങ്കീർണ്ണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത് സങ്കീർണ്ണമെന്ന് പറയുന്നതെന്നാൽ നിങ്ങൾക്ക് കാണാനാകുന്നതു പോലെ ഇതിൽ അക്കങ്ങളും അക്ഷരങ്ങളും ഉണ്ട് ഇതിന് കൂടുതൽ വൈജ്ഞാനിക വഴക്കം ആവശ്യമാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ അക്കങ്ങളും അക്ഷരങ്ങളും തമ്മിൽ വേർതിരിക്കേണ്ടതുണ്ട് ശരി നിങ്ങൾക്ക് ആരംഭിക്കാം ആദ്യം നിങ്ങൾ അക്കങ്ങൾ പിന്തുടരേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ഒന്നിൽ നിന്ന് ആരംഭിക്കും നിങ്ങൾ അക്ഷരത്തിലേക്ക് പോകുക പിന്നീട് നിങ്ങൾ മറ്റൊരു നമ്പറിലേക്ക് പോകുന്നു തുടർന്ന് അക്ഷരത്തിലേക്ക് പിന്നെയും നമ്പർ അപ്പോൾ നിങ്ങൾ ഇവിടത്തെ പാറ്റേൺ കണ്ടിട്ടുണ്ടോ ഇത് കുറച്ചുകൂടി വൈജ്ഞാനികമാണ് നിങ്ങൾ തെറ്റ് വരുത്തുകയാണെങ്കിൽ അത് കുഴപ്പമില്ല എന്നാൽ ശ്രദ്ധക്കുറവുള്ള ഒരു വ്യക്തി ഈ കോംപ്ലക്സ് ടാസ്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ടാസ്ക് വളരെ ബുദ്ധിമുട്ടാണ് പിന്തുടരാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് പ്രധാന ട്രയൽ ടെസ്റ്റ് ആരംഭിക്കാം നമുക്ക് ഇത് അവസാനിപ്പിക്കാം അതെ ഇതാണ് പ്രധാന ടാസ്ക് അതിനാൽ ആദ്യം നിങ്ങൾ നമ്പറിലേക്കും തുടർന്ന് അക്ഷരത്തിലേക്കും പോകുക അതിനാൽ ഇതാണ് അത് ഇത് മനുഷ്യ ശ്രദ്ധ പരിശോധിക്കുന്നതിനുള്ള ലളിതമായ പരീക്ഷയാണ് ഇതിനൊപ്പം ഞങ്ങൾ സ്കാനിംഗ് വേഗതയും പരിശോധിക്കുന്നു പിന്നെ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റിയും എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും നന്ദി നമുക്ക് ഇപ്പോൾ D2 ടെസ്റ്റ് നടത്തിയ മറ്റൊരു ലാബ് സെഷൻ നോക്കാം ശ്രദ്ധയുടെ D2 ടെസ്റ്റ് 1981 ൽ ബ്രക്കൻ ക്യാമ്പ് യഥാർത്ഥത്തിൽ ഒരു റദ്ദാക്കൽ ടാസ്ക് എന്ന രീതിയിലാണ് വികസിപ്പിച്ചത് ഇപ്പോൾ ഇത് വിഷ്വൽ സ്കാനിംഗ് സെലക്ടീവ് ശ്രദ്ധ സ്ഥിരമായ ശ്രദ്ധ എന്നിവ അളക്കാൻ ഒരു ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റായി ഉപയോഗിക്കുന്നു പേപ്പർ പെൻസിൽ ഉപയോഗിച്ച് മനുഷ്യ ശ്രദ്ധ പരിശോധിക്കുന്നതിനുള്ള ലളിതമായ ടെസ്റ്റാണിത് അതിനാൽ ഈ പേന ഇവിടെ നിങ്ങൾക്ക് നൽകും നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങൾ അടയാളപ്പെടുത്താൻ കഴിയും ടെസ്റ്റ് വളരെ എളുപ്പമാണ് ഈ ടെസ്റ്റ് D2 ടെസ്റ്റ് എന്നറിയപ്പെടുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ തിരഞ്ഞെടുത്തതും സുസ്ഥിരവുമായ ശ്രദ്ധയ്ക്കുള്ള ഒരു ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റാണ് D2 ടെസ്റ്റ് അതിനാൽ നിങ്ങൾ എന്താണ് ചെയ്യുകയെന്നാൽ നിങ്ങൾ സ്കാൻ ചെയ്യും ഇവിടെ പേപ്പർ ഷീറ്റ് ഉണ്ടാകും d p പോലെയുള്ള കുറച്ച് അക്ഷരങ്ങൾ ഇവിടെ കാണും തുടർന്ന് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ രണ്ട് മാർക്കുകൾ ഉള്ള അക്ഷരം നിങ്ങൾ അടയാളപ്പെടുത്തണം അതിനാൽ ഇത് നിങ്ങളുടെ ലക്ഷ്യമാണ് ഇത് നിങ്ങളുടെ ലക്ഷ്യമല്ല 2 മാർക്കുകളുള്ള അക്ഷരമാണ് ലക്ഷ്യം അതിനാൽ ഇവിടെ മാർക്കുകൾ 3 ആണ് ഇത് p ആണ് ഇതുപോലെ രണ്ട് മാർക്കുകൾ ഉള്ള d എന്ന അക്ഷരം നിങ്ങൾ കണ്ടെത്തണം അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിച്ചുതരാം എന്നാൽ ഇവ ലക്ഷ്യമല്ല ഇവയാണ് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്നത് അതിനാൽ ടെസ്റ്റ് ഇപ്രകാരമായിരുന്നു അതിനാൽ നിങ്ങൾ ഈ അക്ഷരങ്ങൾ കാണുന്നു അതിനാൽ നിങ്ങൾ ഈ ആദ്യ നിരയിൽ നിന്ന് ആരംഭിച്ച് അവ കഴിയുന്നത് വരെ തുടർന്ന് പോവുക അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഈ 2 ഡോട്ടുകൾ ഉള്ള d ആണ് 2 ഡോട്ടുകൾ ഉള്ള d ഇവിടെ ഇരുവശത്തും ഉണ്ട് എന്നാൽ 3 ഡോട്ടുകളുള്ള d എന്നത് ശ്രദ്ധ തിരിക്കുന്ന ഒന്നാണ് നിങ്ങൾ അത് ഒഴിവാക്കുക അതുപോലെ p യും ഒഴിവാക്കുക p എന്നതും ലക്ഷ്യമല്ല p യും ശ്രദ്ധ തിരിക്കുന്നതാണ് അതെ p എന്നതും ശ്രദ്ധ തിരിക്കുന്നതാണ് അതിനാൽ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം തുടർന്ന് നിങ്ങൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തുക നിങ്ങൾ കുറച്ച് തെറ്റുകൾ പോലും വരുത്തുന്നില്ലെന്ന് ഉറപ്പാക്കുക അതെ നിങ്ങൾക്ക് സുഖകരമായതല്ലേ നമുക്ക് തുടങ്ങിയാലോ നിങ്ങൾ വളരെ വേഗത്തിലായതിനാൽ ഇവിടെ നോക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കുറച്ച് d കൾ ഉണ്ട് ഉദാഹരണത്തിന് ഇത് പിന്നെ ഇത് അതിനാൽ നിങ്ങൾ ലക്ഷ്യമിട്ട ഉത്തേജകങ്ങൾ നഷ്ടപ്പെടുത്തിയ ഈ d കളെല്ലാം ഒരു പിശകായി കണക്കാക്കും അതിനാൽ പിന്നീട് ഞങ്ങൾ വിലയിരുത്തുന്നു പക്ഷേ തീർച്ചയായും സാധാരണ ആരോഗ്യമുള്ള വ്യക്തികൾ അവർ വേഗത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്നാൽ കുറച്ച് കുറവുള്ള ആളുകൾ അത്തരം ടാസ്കുകളിൽ വളരെ പതുക്കെയാണ് മാത്രമല്ല അവർ കൂടുതൽ തെറ്റുകൾ വരുത്തുകയും ചെയ്യുന്നു ചിലപ്പോൾ ഇത് പോലെ മൂന്നാമത്തെ വരിയിൽ നിങ്ങൾ പലതും ഒഴിവാക്കുന്നു അതിനാൽ ഇത് തിരയൽ മൂലമോ ചിലപ്പോൾ p നോട് വളരെ സാമ്യമുള്ളത് കൊണ്ടോ ആകാം അപ്പോൾ നിങ്ങൾ വേഗതയും കണക്കിലെടുക്കുന്നുണ്ടോ അതെ നമുക്ക് വേഗതയും സ്കാനിംഗും കണക്കിലെടുക്കേണ്ടതുണ്ട് അതിനാലാണ് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതുവരെ പേപ്പർ പെൻസിൽ അടിസ്ഥാനമാക്കിയുള്ള മനശാസ്ത്ര ഉപകരണങ്ങളുടെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഫോർമാറ്റിൽ ഇപ്പോൾ ധാരാളം സൈക്കോളജിക്കൽ ടൂളുകൾ ലഭ്യമാണ് എന്ന കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടതുണ്ട് നമുക്ക് ഇപ്പോൾ VNR ടെസ്റ്റ് സിസ്റ്റം ഉൾപ്പെടുന്ന ഒരു ലാബ് സെഷൻ നോക്കാം ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ടെസ്റ്റ് സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു അല്ലെങ്കിൽ ടെസ്റ്റ് ബാറ്ററികൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അവ തുടർച്ചയായി പ്രവർത്തിപ്പിക്കാൻ കഴിയും തീർച്ചയായും നിങ്ങളുടെ സ്വന്തം ടെസ്റ്റ് ബാറ്ററി നിർമ്മിക്കുന്നതിന് വ്യത്യസ്ത ടെസ്റ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട് ആദ്യ ടെസ്റ്റിൽ നിങ്ങൾ ഇവിടെ കാണുന്നത് പെർസെപ്ഷൻ ടെസ്റ്റ് ആണ് ഇവിടെ സബ്ജക്റ്റ് ബ്രൈറ്റ്നസ് വേർതിരിച്ചറിയണം തുടക്കത്തിൽ ഒരു പരിശീലന ടെസ്റ്റ് നിങ്ങൾക്ക് കാണാം നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട് ഇവിടെ നിറമുള്ള ചതുരം ഒന്നുകിൽ അപ്രത്യക്ഷമാകുന്നു അല്ലെങ്കിൽ ബ്രൈറ്റ് ആകുന്നു അല്ലെങ്കിൽ അത് വെളിച്ചമുള്ളതായി മാറുന്നു സബ്ജക്റ്റ് ഈ പച്ച ബട്ടൺ അമർത്തണം ഈ സമചതുരം ഇരുണ്ടതോ വെളിച്ചമുള്ളതോ ആകുന്നു ഇവിടെ ചിലപ്പോൾ സ്ക്വയർ വെളിച്ചമുള്ളതോ ഇരുണ്ടതോ ആവാം നിങ്ങൾ അത് ശ്രദ്ധയോടെ വീക്ഷിക്കണം സ്ക്വയർ വെളിച്ചമുള്ളതോ ഇരുണ്ടതോ ആണെങ്കിൽ ദയവായി പച്ച ബട്ടൺ അമർത്തുക ഈ പ്രതികരണ പാനലിൽ നിന്ന് നമ്മൾ പച്ച ബട്ടൺ അമർത്തണം കഴിയുന്നത്ര വേഗത്തിൽ നമ്മൾ അത് അമർത്തണം അതിനാൽ അടുത്തതായി അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ ഇവിടെ നമ്മൾ പച്ച ബട്ടൺ അമർത്തണം അതിനാൽ ഈ പ്രതികരണ പാനലിൽ നിന്ന് നമ്മൾ വീണ്ടും പച്ച ബട്ടൺ അമർത്തേണ്ടതുണ്ട് നമുക്കത് ചെയ്യാം അതിനാൽ ഇവിടെ നിന്ന് ഇത് ആരംഭിക്കുന്നുണ്ട് അതിനാൽ നമ്മൾ പച്ച ബട്ടൺ അമർത്തേണ്ടതുണ്ട് അത് ഷേഡുകളെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ മാത്രമേ ഞങ്ങൾ പച്ച ബട്ടൺ അമർത്തേണ്ടതുള്ളൂ അതിനാൽ ഇതാണ് ഡെമോ ഇത് പരിശീലന ടെസ്റ്റായിരുന്നു അടുത്ത 4 മിനിറ്റിനുള്ളിൽ നമുക്ക് അതേ പ്രക്രിയ തന്നെ ഉണ്ടാകും ഇപ്പോൾ യഥാർത്ഥ ടെസ്റ്റ് ആരംഭിക്കുന്നു ടെസ്റ്റ് ആരംഭിക്കാൻ ഇവിടെ അമർത്താം വീണ്ടും ടെസ്റ്റ് ആരംഭിക്കാൻ നമ്മൾ പച്ച ബട്ടൺ അമർത്തണം അതിനാൽ ഇവിടെ നമ്മൾ പച്ച ബട്ടൺ അമർത്തും അതിനാൽ വീണ്ടും ഇതാണ് യഥാർത്ഥ ടെസ്റ്റ് ഇത് വെളിച്ചമുള്ളതായിത്തീരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും പച്ച ബട്ടൺ അമർത്തുക പക്ഷേ അത് മാറുന്നു അതിനാൽ ഞാൻ പച്ച ബട്ടൺ അമർത്തുക അതിനാൽ സമചതുരം മാറി വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അത് അമർത്തേണ്ടതുണ്ട് അതിനാൽ ഇവിടെ ടെസ്റ്റ് അവസാനിക്കുകയും വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു പങ്കെടുത്തതിന് നന്ദി അതിനാൽ ഇവിടെ ടെസ്റ്റ് അവസാനിച്ചു അതിനാൽ ഫലം പ്രദർശിപ്പിക്കുന്നതിന് അത് യാന്ത്രികമായി നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നൽകുന്നു അതിനാൽ ഫലം കാണുന്നതിനോ നോക്കുന്നതിനോ നിങ്ങൾക്ക് ഈ ബട്ടൺ അമർത്താം ടെസ്റ്റ് ഫലങ്ങൾ പ്രദർശിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ പ്രിന്റ് ടെസ്റ്റ് റിസൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം അതിനാൽ നിങ്ങൾക്ക് ഫലങ്ങൾ കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ടെസ്റ്റ് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യാം ഇനി ഈ റിപ്പോർട്ട് ഡിസ്പ്ലേകളിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇനി നിങ്ങൾക്കത് പകർത്തി പിന്നീടൊരു ഘട്ടത്തിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ കീബോർഡ് ഓപ്ഷനിൽ നിന്നും നമുക്ക് അത് കോപ്പി ചെയ്ത് എംഎസ് വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോർമാറ്റ് മോഡലുകൾ പോലുള്ള മറ്റേതെങ്കിലും ഫോർമാറ്റിലേക്ക് നമുക്ക് ഇത് പേസ്റ്റ് ചെയ്യാൻ കഴിയും അതിനാൽ ഇതാണ് മുഴുവൻ റിപ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് വ്യാഖ്യാന ഓപ്ഷനും ഉണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫലവുമായി ബന്ധപ്പെട്ട മുഴുവൻ വ്യാഖ്യാനവും കാണാം ഇവിടെ മാനദണ്ഡങ്ങളുടെ പട്ടികയാണ് ഈ പ്രത്യേക ടെസ്റ്റുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഇതിലുണ്ട് അതിനാൽ ഇതാണ് ലക്ഷ്യസ്ഥാനം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലോസ് ബട്ടൺ അമർത്താം അതിനാൽ മുഴുവൻ റിപ്പോർട്ടും ഇവിടെയുണ്ട് അതിനാൽ ഇതാണ് മുഴുവൻ ടെസ്റ്റ് റിസൾട്ട് അതിനാൽ ഇവിടെ അത് ആദ്യം നിങ്ങളുടെ പേര് വ്യക്തിയുടെ പ്രായം ലിംഗഭേദം പ്രായം അക്ഷരങ്ങളിൽ എഴുതാൻ വിദ്യാഭ്യാസ നില എന്നിവ നൽകുന്നു ഇവിടെ അത് പരീക്ഷയുടെ പേര് നൽകുന്നു ഇത് FWA ആയിരുന്നു ഇത് അടിസ്ഥാനപരമായി പെർസപ്ഷൻ ആൻഡ് അറ്റെൻഷൻ ഫംഗ്ഷൻ ടെസ്റ്റിനാണ് ഇത് അടിസ്ഥാനപരമായി പെർസെപ്ഷൻ ടെസ്റ്റ് ഫംഗ്ഷനുള്ളതാണ് നമ്മൾ S2 ഫോം തിരഞ്ഞെടുത്തു അങ്ങനെ ഇവിടെ S2 കൊടുക്കുന്നു അത് വ്യതിരിക്തമായ ബ്രൈറ്റ്നസ് ടെസ്റ്റ് ആണ് ടെസ്റ്റ് അഡ്മിനിസ്ട്രേഷനിൽ തിയതിയും സമയവും മൊത്തം ടെസ്റ്റിനെടുത്ത സമയവും ഉണ്ട് അതിൽ പൈലറ്റ് ടെസ്റ്റും യഥാർത്ഥ ടെസ്റ്റും ഉൾപ്പെടും ഇവിടെ യഥാർത്ഥ ടെസ്റ്റ് റിസൾട്ടിൽ ടെസ്റ്റ് വേരിയബിളും റോ സ്കോറും ഉണ്ട് അതിനാൽ ഇവിടെ ഇവ റോ സ്കോർ നൽകും അതിനാൽ ആദ്യം ശരിയായ പ്രതികരണങ്ങളാണ് അതിനാൽ ഇവിടെ നിങ്ങൾക്ക് 100 ശതമാനം ലഭിക്കുന്നു ഇവിടെ തെറ്റായ പ്രതികരണങ്ങൾ ഇവിടെ 0 0 ആണ് വീണ്ടും ഒമിഷൻ ഉണ്ട് അതിനർത്ഥം എനിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ക്ലിക്കുചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അതിനാൽ ഇത് നിങ്ങളുടെ യഥാർത്ഥ പരീക്ഷയുടെ റോ സ്കോർ ആണ് നമുക്ക് റോ സ്കോർ ഒരു സംഖ്യ ഉണ്ട് ആ പ്രത്യേക സംഖ്യയുടെ വിവരണം ഇതാ ഇവിടെയും ഉണ്ട് ഇവിടെ റോ സ്കോർ ഇൻ പെർസെന്റ് ഉണ്ട് ഇതിനർത്ഥം ഈ റോ സ്കോർ ശതമാന രൂപത്തിലാണ് എന്നാണ് ഇനി നമുക്ക് താഴേക്ക് നീങ്ങാം അതിനാൽ ഇവിടെ ടെസ്റ്റ് പ്രോട്ടോക്കോൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം നിയമങ്ങളുണ്ട് അതിനാൽ ഇവിടെ മൊത്തം 42 കണക്കുകൾ ഉണ്ട് അത് ഇനം എന്നതിന് കീഴിലായിട്ട് വരുന്നു അതിനാൽ ആദ്യം മുതൽ 10 വരെയുള്ള ഇനങ്ങൾക്ക് നമുക്ക് ഈ സ്കോർ ലഭിക്കും ഇത് അടിസ്ഥാനപരമായി ഓട്ടോമാറ്റിക്കായിട്ട് കണക്കാക്കിയ സ്കോർ ആണ് ഈ ബിടിഎസ് സിസ്റ്റത്തിനുള്ളിൽ ഇതിനകം ഉള്ള നോം സാമ്പിളുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്കോർ കണക്കാക്കുന്നത് ഏതുതരം നോം സാമ്പിളുകളാണെന്നും എന്താണ് ഫോർമുല എന്നും ഈ മെഷീനിൽ എത്ര നോം സാമ്പിളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എല്ലാം നിങ്ങൾക്ക് ഈ നോം ബട്ടൺ ഉപയോഗിച്ച് കണ്ടെത്താനാകും നിങ്ങൾക്ക് ഇവിടെ പോയി ഇവിടെ ക്ലിക്കുചെയ്യാം അപ്പോൾ ഈ കണക്കുകൾ ലഭിക്കുന്നതിന് ഈ സിസ്റ്റം എങ്ങനെ ഏത് രീതിശാസ്ത്രം ഉപയോഗിച്ചുവെന്നതുൾപ്പെടെയുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും നിങ്ങൾക്ക് ലഭിക്കും വീണ്ടും ഇത് ആദ്യത്തെ 2 ഇനങ്ങൾക്കുള്ളതാണ് അതുപോലെ 11 മുതൽ 20 വരെ 21 മുതൽ 30 വരെ 41 മുതൽ 42 വരെയുള്ള മുഴുവൻ കണക്കും കണക്കാക്കിയിട്ടുണ്ട് ഈ ടാബുലാർ ഫോർമാറ്റിന്റെ ചുവടെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ലഭിക്കും ഉദാഹരണത്തിന് ഫീൽഡുകളിലെ നമ്പർ പ്രതികരണങ്ങളുടെ തരം സൂചിപ്പിക്കുന്നു എന്ന് ഇവിടെ കമന്റ് ആയി കാണാം ഇവിടെ അത് 0 ആണ് ഇതിനർത്ഥം ഇത് കറക്റ്റ് നോൺ റിയാക്ഷൻ ആണ് എന്നാണ് നിങ്ങൾക്ക് ഇതുപോലെ 1 ലഭിക്കുമ്പോൾ 1 എന്നത് കറക്റ്റ് റിയാക്ഷൻസ് എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ എവിടെയെങ്കിലും 0 ലഭിക്കുകയാണെങ്കിൽ അത് ഒമിഷൻ എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് 1 ലഭിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഫാൾസ് റിയാക്ഷൻ ആണെന്നതാണ് ജോലി സമയം സെക്കന്ഡുകളിൽ ഇത് ഈ ടാബുലാർ ഫോർമാറ്റിൽ ദൃശ്യമാകില്ല കാരണം നിങ്ങൾക്ക് ഈ 0 മാർക്കും ഈ 1 മാർക്കും ഈ ടാബുലാർ ഫോർമാറ്റിൽ കാണാൻ കഴിയില്ല ഈ ബ്ലാങ്ക് ഡാഷ് ഈ ടാബുലാർ ഫോർമാറ്റിൽ വന്നാൽ ആ ഇനം ടെസ്റ്റിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഇത് ടാബുലാർ ഫോർമാറ്റിൽ ലഭ്യമല്ല കാരണം ടെസ്റ്റ് സമയത്ത് ഇത് സംഭവിച്ചിട്ടില്ല മുള്ളർ ലയർ ഇല്യൂഷനുള്ള ഒരു പഠനപ്രക്രിയയാണ് ഇത് ഈ പഠനപ്രക്രിയയിൽ രണ്ട് വരകളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം ഒന്ന് അമ്പടയാളമുള്ള വരയാണ് ഒന്ന് തൂവൽ അടയാളമുള്ള വരയാണ് ഇപ്പോൾ ഈ വര ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ വ്യക്തി ചെയ്യേണ്ടത് ഇത് നീക്കുക എന്നതാണ് അങ്ങനെ ആ വ്യക്തിക്ക് ഈ വര അമ്പടയാള വരയോട് തുല്യമാക്കാൻ കഴിയും ഇത് നീക്കി കൊണ്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ ഇത് ഇവിടെ കൊണ്ടുവരുകയാണെങ്കിൽ ഇത് ഈ വരയേക്കാൾ ചെറുതായിരിക്കും നിങ്ങൾ ഇത് ഏകദേശം ഇവിടെ കൊണ്ടുവന്നാൽ അത് അമ്പടയാളമുള്ള വരയോട് തുല്യമായിരിക്കും ഇപ്പോൾ ആ വ്യക്തി അത് ശരിയായി ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ അതിന്റെ പുറകിൽ ഒരു സ്കെയിൽ ഉണ്ട് ഈ സ്കെയിൽ ഉപയോഗിച്ച് അമ്പടയാളമുള്ള വരക്ക് അനുസൃതമായി പങ്കെടുക്കുന്നയാൾ ഉറപ്പിച്ച് വെച്ചിട്ടുള്ള തൂവൽ അടയാള വരയുടെ യഥാർത്ഥ നീളം എന്താണെന്ന് നമുക്ക് അളക്കാനാകും അതിനാൽ ഈ ഉപകരണത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഒരു അമ്പടയാള വരയാണ് ഇതൊരു തൂവൽ അടയാളമുള്ള വരയാണ് ഈ വരക്ക് അനുസൃതമായി നിങ്ങൾ ഈ വര ക്രമീകരിക്കണം അതിനാൽ നിങ്ങൾക്ക് ഈ വശം നീക്കി വരകൾ തുല്യമല്ലെന്ന് നിങ്ങൾ കരുതുന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അതിനാൽ ഈ ട്രയലിൽ ഈ വ്യക്തി 12 5 സെന്റിമീറ്റർ ദൂരം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി ഈ വരയോട് തുല്യമാക്കുന്നതിന് അതേ കൈകൊണ്ട് നിങ്ങൾ വീണ്ടും ഈ സ്ലൈഡർ ഇതിന് എതിരായി നീക്കണം ചെയ്തോ അതിനാൽ ഈ ട്രയലിൽ നീളം ഏകദേശം 12 4 സെന്റീമീറ്ററാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ അവസ്ഥയിൽ ഈ വര അമ്പടയാള വരയോട് തുല്യമാക്കുന്നതിന് ഒരു ഔട്ട്പുട്ട് മൂവ്മെന്റ് നടത്താൻ പങ്കെടുക്കുന്നയാളോട് നമ്മൾ ആവശ്യപ്പെടും പങ്കെടുക്കുന്നയാൾക്ക് ഏകദേശം ഇത് മതിയെന്ന് തോന്നുന്നിടത്ത് അയാൾ ഈ സ്ലൈഡർ നിർത്തും ഇപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ സ്ലൈഡർ നടു ഭാഗത്താണ് നിങ്ങൾ സ്ലൈഡർ പുറത്തേക്ക് നീക്കണം അങ്ങനെ ഈ വര ഈ അമ്പടയാള വരയോട് തുല്യമാക്കാൻ കഴിയും അതിനാൽ ഈ ട്രയലിൽ ഏകദേശ നീളം 11 9 സെന്റീമീറ്ററായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ വീണ്ടും നിങ്ങൾ അതേ കാര്യം ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ അത് പുറത്തേക്ക് സ്ലൈഡുചെയ്യണം അതുവഴി അമ്പടയാള വരക്ക് തുല്യമായി വര നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും ദയവായി ചെയ്യുക അതിനാൽ ഈ ട്രയലിൽ നിങ്ങൾക്ക് നീളം ഏകദേശം 12 1 സെന്റീമീറ്ററായിരുന്നു ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇല്യൂഷനുള്ള ഒരു പഠനപ്രക്രിയയാണ് ഇത് ഇതിൽ നിങ്ങൾക്ക് ഈ സ്ലൈഡർ മുകളിലേക്ക് നീക്കാൻ കഴിയുമെന്ന് കാണാം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ നമ്മൾ അത് ഒരു ലെവലിൽ നിലനിർത്തുകയും ഈ സ്ലൈഡർ ക്രമീകരിക്കാൻ നമ്മൾ വ്യക്തിയോട് ആവശ്യപ്പെടുകയും ചെയ്യും അങ്ങനെ ഈ വര ഈ വരയോട് തുല്യമായിരിക്കും അതിനാൽ ഈ സ്ലൈഡർ നീക്കാൻ കഴിയും ഈ വര ഈ വരക്ക് തുല്യമല്ലെന്ന് പങ്കെടുക്കുന്നയാൾക്ക് തോന്നുന്ന സ്ഥലത്ത് അയാൾ അത് വെക്കും ഓപ്പറേറ്ററിന് പിന്നിലുള്ള സ്കെയിലിൽ നിന്ന് ആ വരയുടെ നീളം നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഈ വര ഇത് ഒരു ചലിക്കുന്ന സ്ലൈഡർ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്ലൈഡർ താഴേക്ക് നീക്കുക എന്നതാണ് അങ്ങനെ ഈ വര ഈ വരയോട് തുല്യമാകും അതിനാൽ ദയവായി അത് ചെയ്യുക ഇപ്പോൾ ഈ വരയുടെ നീളം നമുക്ക് പുറകിൽ ഉള്ള ഈ സ്കെയിലിൽ നിന്നും കാണാൻ കഴിയും ഇവിടെയാണ് വ്യക്തി ഈ സ്ലൈഡർ നീക്കുന്നത് അതിനാൽ നിങ്ങൾ ഈ ടാസ്ക്ക് വീണ്ടും ചെയ്യണം നിങ്ങൾ ഈ സ്ലൈഡർ നീക്കണം അതുവഴി ഈ വര ഈ വരയോട് തുല്യമാവും ദയവായി ചെയ്യുക ഇപ്പോൾ നീളം പിന്നിൽ നിന്ന് കാണാം ഇവിടെയാണ് ആ വ്യക്തി സ്ലൈഡർ വെച്ചിട്ടുള്ളത്